നമസ്കാരം കഴിഞ്ഞ സെഷനിൽ നമ്മൾ ത്രീ ഫേസ് ബാലൻസ്ഡ് സിസ്റ്റത്തിന്റെ പവർ അളക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഇന്ന് അസന്തുലിതമായ ത്രീ ഫേസ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ധാരണയോടെ നമ്മൾ ചർച്ച ആരംഭിക്കും തുടർന്ന് അസന്തുലിതമായ ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ വൈദ്യുതി എങ്ങനെ അളക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്യും ഇന്നത്തെ പ്രഭാഷണത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കാം ആദ്യം അസന്തുലിതമായ സിസ്റ്റം എന്താണെന്ന് മനസിലാക്കാം അതിനാൽ സാധ്യമായ രണ്ട് സാഹചര്യങ്ങളാൽ അസന്തുലിതമായ സിസ്റ്റം സംഭവിക്കുന്നു ഇവ എന്താണ് ഉറവിട വോൾട്ടേജ് അളവിൽ തുല്യമല്ല എങ്കിൽ അസമമായ കോണനുസരിച്ച് ഫേസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനർത്ഥം സമതുലിതമായ ഒരു സിസ്റ്റത്തിന് ഫേസ് പരസ്പരം തുല്യവും പരസ്പരം 120 ഡിഗ്രി അകലത്തിലാണെന്ന് നമുക്കറിയാം എന്നാൽ അസന്തുലിതമായ സിസ്റ്റത്തിന്റെ ഫേസ് കൃത്യമായി 120 ഡിഗ്രി അകലെയാകില്ല ചില ഫേസ് വ്യത്യാസമുണ്ടാകും അത്തരം സാഹചര്യങ്ങളിൽ സിസ്റ്റം അസന്തുലിതമാണെന്ന് നമ്മൾ പറയും രണ്ടാമത്തെ കേസ് അസന്തുലിതമായ ലോഡിന്റെ കാര്യമായിരിക്കാം അവിടെ ലോഡ് ഇംപെഡൻസുകൾ അസമമാണ് ത്രീ ഫേസ് സിസ്റ്റം അസന്തുലിതമാണെന്ന് നമ്മൾ പറയുന്ന രണ്ട് വ്യവസ്ഥകളാണ് ഇവ അതിനാൽ അസന്തുലിതമായ സിസ്റ്റം അസന്തുലിതമായ വോൾട്ടേജ് ഉറവിടങ്ങൾ അല്ലെങ്കിൽ അസന്തുലിതമായ ലോഡ് മൂലമാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഈ സെഷനിൽ അസന്തുലിതമായ സിസ്റ്റവുമായി ബന്ധപ്പെട്ട വിശകലനം ലളിതമാക്കുന്നതിന് ഉറവിടം സന്തുലിതമാണെന്ന് നമ്മൾ അനുമാനിക്കും അതായത് വോൾട്ടേജുകൾ മാഗ്നിറ്റ്യൂഡ് ആംഗിൾ എന്നിവ സമതുലിതമായ വോൾട്ടേജ് ഉറവിടത്തിനനുസരിച്ചാണ് എന്നാൽ ലോഡ് അസന്തുലിതമാണ് ZA ZB ZC എന്നീ ലോഡ് ഇംപെൻഡൻസുകൾ സമാനമല്ലെന്നാണ് ഇതിനർത്ഥം അസന്തുലിതമായ ത്രീ ഫേസ് സിസ്റ്റത്തിനായി നോഡൽ അല്ലെങ്കിൽ മെഷ് ഉപയോഗിച്ച് വിവിധ വൈദ്യുത പാരാമീറ്ററുകൾ കണക്കാക്കാം ഈ സ്ലൈഡിൽ കാണുന്ന ചിത്രത്തിൽ ഇത് അസന്തുലിതമായ ത്രീ ഫേസ് സ്റ്റാർ സ്റ്റാറിന്റെ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ സമതുലിതമായ ഉറവിടം അടങ്ങിയ Y Y സിസ്റ്റം എന്നും നിങ്ങൾക്ക് പറയാം നമ്മൾ കാണുന്ന പ്രത്യേക നോഡുകൾക്ക് പിന്നിൽ സമതുലിതമായ ഉറവിടമുണ്ട് അസന്തുലിതമായ ലോഡ് കണക്കാക്കി സർക്യൂട്ട് വിശകലനം ചെയ്യുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം എന്നതിനാൽ ചിത്രത്തിൽ അത് കാണിക്കുന്നില്ല ചിത്രത്തിലെ അസന്തുലിതമായ ലോഡ് മാത്രമാണ് കാണിക്കുന്നത് അതിനാൽ മുമ്പത്തെ ചിത്രത്തിൽ കണ്ടതുപോലെ അസന്തുലിതമായ ലോഡ് മാത്രമേ നമ്മൾ കാണൂ ഇവിടെ അസന്തുലിതമായ ലോഡിന്റെ കാര്യത്തിൽ ZA ZB ZC എന്നിവ തുല്യമല്ലാത്ത ഫേസ് ഇംപെൻഡൻസുകളാണ് ഓംസ് ലോയുടെ സഹായത്തോടെ നമ്മൾ ലൈൻ കറന്റ് കണക്കാക്കുന്നു അതായത് ഈ അസന്തുലിതമായ ലൈൻ കറന്റ് ന്യൂട്രൽ വയറിൽ വൈദ്യുതധാര ഉൽപാദിപ്പിക്കുന്നു കാരണം മൊത്തം ലൈൻ വൈദ്യുതധാരകളുടെ ആകെത്തുക അതായത് Ia Ib Ic എന്നത് ബാലൻസ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ 0 ആകില്ല അങ്ങനെയാണെങ്കിൽ നോഡ് N ൽ KCL പ്രയോഗിച്ചാൽ നമുക്ക് ന്യൂട്രൽ കറന്റിന്റെ മൂല്യം ലഭിക്കും അതായത് ത്രീ വയർ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ന്യൂട്രൽ ലൈൻ ഇല്ലെന്നാണ് ഇതിനർത്ഥം മെഷ് വിശകലനം ഉപയോഗിച്ച് നമുക്ക് ഇപ്പോഴും Ia Ib Ic എന്ന ലൈൻ കറണ്ടുകൾ കണ്ടെത്താനാകും അത്തരം സന്ദർഭങ്ങളിൽ നോഡ് n ൽ ന്യൂട്രൽ ലൈൻ ഇല്ലാതിരിക്കുമ്പോൾ കെസിഎൽ തുടരും അതായത് Ia Ib Ic 0 അസന്തുലിതമായ ഡെൽറ്റ വൈ വൈ ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റ ഡെൽറ്റ ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റങ്ങൾക്കായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്റ്റാർ സ്റ്റാർ അല്ലെങ്കിൽ വൈ വൈ കണക്റ്റുചെയ്ത സിസ്റ്റത്തിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഇത് വിശകലനം ചെയ്തത് അതിനാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോംഗ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ കണ്ടക്ടറുകൾ മൂന്നിന്റെ ഗുണിതങ്ങളിലാണ് അതായത് നമുക്ക് ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഭൂമി തന്നെ ഒരു നിഷ്പക്ഷ കണ്ടക്ടറായി പ്രവർത്തിക്കും അതിനാൽ നീളമുള്ള ട്രാൻസ്മിഷൻ ലൈനിനൊപ്പം നമ്മൾ ന്യൂട്രൽ കണ്ടക്ടർ ഇടുന്നില്ല ഒരു നിഷ്പക്ഷ കണ്ടക്ടറായി നമ്മൾ ഭൂമിയെ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഒരു അസന്തുലിതമായ ത്രീ ഫേസ് സിസ്റ്റത്തിൽ പവർ കണക്കാക്കാൻ നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ നേരത്തെ കണ്ട സമവാക്യം ഉപയോഗിച്ച് ഓരോ ഫേസിലും ശക്തി കണ്ടെത്തണമെന്നാണ് നമ്മളുടെ ആവശ്യം ഫേസിന്റെ റിയൽ പവർ പോലെ നമുക്ക് എഴുതാൻ കഴിയും മൊത്തം ഊർജ്ജം ഒരു ഫേസിലെ ഊർജ്ജത്തിന്റെ മൂന്നിരട്ടിയല്ല മൂന്ന് ഫേസിലുള്ള ശക്തികളുടെ ആകെത്തുകയാണ്

അസന്തുലിതമായ അവസ്ഥയിൽ ഓരോ ഫേസിലും വ്യക്തിഗത ശക്തികളുടെ ആകെത്തുകയായി നമുക്ക് പവർ P യുടെ മൂല്യം ലഭിക്കും എന്ന വ്യവസ്ഥ കണ്ടെത്തിയതിനാൽ ഈ ശക്തി എങ്ങനെ അളക്കുമെന്ന് ഇപ്പോൾ നോക്കാം എങ്ങനെ കണക്കാക്കും അല്ലെങ്കിൽ ഈ ശക്തി എങ്ങനെ അളക്കും ത്രീ ഫേസ് പവർ അളക്കാനായി വ്യത്യസ്ത ടെക്നിക്കുകൾ ഉപയോഗിക്കും ത്രീ ഫേസ് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതിനാൽ ബാലൻസ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ വാട്ട് മീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ത്രീ ഫേസ് സിസ്റ്റത്തിലെ ശരാശരി വൈദ്യുതി അളക്കാൻ സിംഗിൾ വാട്ട് മീറ്റർ ഉപയോഗിക്കാം കാരണം സിസ്റ്റം പൂർണ്ണമായും സന്തുലിതമാകുമ്പോൾ ഓരോ ഫേസിലുമുള്ള വൈദ്യുതി തുല്യമായിരിക്കും അതിനാൽ ഒരൊറ്റ ഫേസിനായി പവർ അളക്കുകയാണെങ്കിൽ മൊത്തം വൈദ്യുതി 1 വാട്ട് മീറ്റർ വായിക്കുന്നതിന്റെ മൂന്നിരട്ടിയാകും ഇപ്പോൾ സിസ്റ്റം അസന്തുലിതമാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ സിംഗിൾ വാട്ട് മീറ്റർ രീതി ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെയാകുമ്പോൾ അസന്തുലിതമായ ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ മൊത്തം വൈദ്യുതി കണ്ടെത്താൻ നമുക്ക് രണ്ടോ മൂന്നോ സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ ആവശ്യമാണ് വൈദ്യുതി അളക്കുന്നതിനായി നമ്മൾ മൂന്ന് വാട്ട് മീറ്റർ രീതി എങ്ങനെ ഉപയോഗിക്കുമെന്ന് മനസിലാക്കാൻ ആദ്യം ശ്രമിക്കാം ലൈനിൻറെ ഓരോ ഫേസിലും ബന്ധിപ്പിച്ച വാട്ട് മീറ്ററുകൾ നമ്മൾ ഉപയോഗിക്കും കറണ്ട് കോയിലിനെ സീരീസിലും പൊട്ടൻഷ്യൽ കോയിലിനെയും സമാന്തരമായി നമ്മൾ ബന്ധിപ്പിക്കും അതിനാൽ സമാന്തരമായി അർത്ഥമാക്കുന്നത് പൂജ്യം നിഷ്പക്ഷമാണ് അല്ലെങ്കിൽ a ഉം o ഉം തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടെത്താൻ നമുക്ക് കഴിയുന്ന ഏത് ലൈനും നിങ്ങൾക്ക് പരിഗണിക്കാം എന്ന വോൾട്ടേജായിരിക്കും പൊട്ടൻഷ്യൽ ഉള്ള കോയിൽ നൽകുന്നത് കൂടാതെ W1 മീറ്ററിൽ നിന്ന് മൊത്തം വൈദ്യുതി ലഭിക്കും അതുപോലെ W2 W3 മീറ്ററുകൾ വ്യക്തിഗത ഫേസുമായി ബന്ധിപ്പിക്കും അതാണ് b c പൊട്ടൻഷ്യൽ കോയിൽ അതായത് വോൾട്ടേജ് കോയിലും ഫേസും റഫറൻസ് നോഡും തമ്മിൽ ബന്ധിപ്പിക്കും അതിനാൽ ഈ ക്രമീകരണത്തിൽ റഫറൻസ് നോഡിനെ o ആയി പരിഗണിക്കുന്നു മൂന്ന് ഫേസ് ലോഡുകളുടെ കാര്യത്തിൽ Y അല്ലെങ്കിൽ ഡെൽറ്റയായി ബന്ധിപ്പിച്ചിരിക്കാം അല്ലെങ്കിൽ അത് സമതുലിതമോ അസന്തുലിതമോ ആകാമെങ്കിൽ മൊത്തം പവർ എങ്ങനെ കണക്കാക്കുമെന്ന് ഇപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ മൂന്ന് വാട്ട് മീറ്ററിൽ നിന്ന് ലഭിക്കുന്ന മൂല്യത്തിന്റെ സഹായത്തോടെ ഈ ലോഡ് ഉപയോഗിക്കുന്ന മൊത്തം ഊർജ്ജത്തിന്റെ മൂല്യം എങ്ങനെ കണ്ടെത്താമെന്ന് ഇപ്പോൾ നോക്കാം പവർ ഫാക്ടർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ത്രീ ഫേസ് സിസ്റ്റത്തിൽ പവർ അളക്കാൻ മൂന്ന് വാട്ട് മീറ്റർ രീതി ഇപ്പോൾ അനുയോജ്യമാണ് അതിനാൽ മൂന്ന് വാട്ട് മീറ്റർ രീതിയുടെ ആകെ ശരാശരി പവർ മൂന്ന് വാട്ട് മീറ്റർ റീഡിംഗുകളുടെ ആൽജബ്റിക് തുകയായിരിക്കും ഇവിടെ പി 1 പി 2 പി 3 എന്നിവ വാട്ട്മീറ്റർ ഡബ്ല്യു 1 ഡബ്ല്യു 2 ഡബ്ല്യു 3 എന്നിവയുടെ റീഡിംഗുമായി യോജിക്കുന്നു ഇപ്പോൾ നമ്മൾ o എന്ന പൊതുവായ പോയിന്റുമായി ബന്ധപ്പെട്ടാണ് വായന എടുത്തത് അതിനാൽ നമ്മൾ അത് ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തു എന്നാൽ സാധാരണയായി Y കണക്ഷനിൽ സംഭവിക്കുന്നത് o ന്യൂട്രൽ പോയിന്റല്ലാതെ മറ്റൊന്നുമായിരിക്കില്ല പൊട്ടൻഷ്യൽ കോയിലിനു കുറുകെ നിങ്ങൾ കാണുന്ന വോൾട്ടേജ് ഫേസ് വോൾട്ടേജായിരിക്കും ലോഡ് ഡെൽറ്റ കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ന്യൂട്രൽ പോയിന്റ് ഇല്ലാതാകും അത്തരം സന്ദർഭങ്ങളിൽ റഫറൻസ് പോയിന്റ് o ഏത് ഫേസിലും ബന്ധിപ്പിക്കാൻ കഴിയും ലോഡ് ഡെൽറ്റ കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് a b അല്ലെങ്കിൽ c ലേക്ക് കണക്റ്റുചെയ്യാനാകും ഉദാഹരണത്തിന് പോയിന്റ് b ഫേസ് b ലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പോയിന്റ് b വാട്ട് മീറ്ററിലെ W2 ലെ വോൾട്ടേജ് കോയിൽ 0 വായിക്കും അതിനാൽ വാട്ട് മീറ്റർ W2 ൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വായന 0 ആയിരിക്കും ഈ സാഹചര്യത്തിൽ വാട്ട് മീറ്റർ W2 ബന്ധിപ്പിക്കുന്നതിന് ആവശ്യമില്ല ഊർജ്ജ ഉപഭോഗ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് 2 വാട്ട് മീറ്റർ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ മൊത്തം വൈദ്യുതി അളക്കാൻ രണ്ട് വാട്ട് മീറ്റർ എങ്ങനെ മതിയെന്നും നമ്മൾ കാണും ലോഡ് ഉപയോഗിക്കുന്ന മൊത്തം വൈദ്യുതി കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ രണ്ട് വാട്ട് മീറ്റർ രീതിയുടെ കാര്യത്തിൽ കാണുന്ന ക്രമീകരണമാണിത് ഇവിടെ വീണ്ടും ലോഡ് മൂന്ന് ഫേസാണ് ഇത് നക്ഷത്രമോ ഡെൽറ്റയോ ബന്ധിപ്പിക്കാം അല്ലെങ്കിൽ അത് സമതുലിതമോ അസന്തുലിതമോ ആകാം വാട്ട് മീറ്ററിന്റെ ക്രമീകരണം അത്തരത്തിലുള്ളതാണ് കറണ്ട് കോയിൽ ഫേസ് a ഫേസ് C എന്നിവയുമായി പരമ്പരയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു പൊട്ടൻഷ്യൽ കോയിൽ രണ്ട് ഫേസ് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു W1 ന് പൊട്ടൻഷ്യൽ കോയിൽ എ ബി എന്നിവ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു W2 ന് പൊട്ടൻഷ്യൽ കോയിൽ സി ബി എന്നിവ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ മൂന്ന് വാട്ട് പവർ അളക്കലിനായി രണ്ട് വാട്ട് മീറ്റർ രീതിയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ട രണ്ട് ഫേസിനായി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് വാട്ട് മീറ്ററുകൾ ശരിയായി ബന്ധിപ്പിക്കണം കറണ്ട് കോയിൽ കണക്റ്റുചെയ്തിരിക്കുന്ന ലൈനുമായി വോൾട്ടേജ് കോയിലിന്റെ പ്ലസ് മൈനസ് ടെർമിനൽ ബന്ധിപ്പിച്ചിരിക്കുന്നതായി ശ്രദ്ധിക്കാം അതിനാൽ വാട്ട് മീറ്റർ കണക്ഷന്റെ ദിശ നിങ്ങൾ കാണുകയാണെങ്കിൽ കറണ്ട് കോയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നിടത്ത് നിന്ന് പൊട്ടൻഷ്യൽ കോയിലിനെ ബന്ധിപ്പിക്കാം ഇപ്പോൾ വ്യക്തിഗത വാട്ട് മീറ്ററിലാണെങ്കിലും ഒരു ഫേസിലും വൈദ്യുതി എടുക്കുന്നില്ല കാരണം പൊട്ടൻഷ്യൽ കോയിലിനു കുറുകെ വരുന്ന വോൾട്ടേജ് ഫേസ് വോൾട്ടേജല്ല അല്ലെങ്കിൽ അത് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഫേസിലും ഉപയോഗിക്കുന്ന ഊർജ്ജം നിങ്ങൾക്ക് നൽകില്ല പക്ഷേ ബീജഗണിത തുക രണ്ട് വാട്ട് മീറ്ററിന്റെ മൂല്യമാണ് നൽകുന്നത് ഇത് മൊത്തം ശരാശരി വൈദ്യുതിക്ക് തുല്യമായിരിക്കും ലോഡ് ഉപയോഗിച്ച് ഇത് ലോഡ് വൈ അല്ലെങ്കിൽ ഡെൽറ്റ കണക്റ്റുചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് സമതുലിതമോ അസന്തുലിതമോ ആണോ എന്നത് പരിഗണിക്കാതെ തന്നെ അതിനാൽ മൊത്തം പവർ രണ്ട് വാട്ട് മീറ്റർ റീഡിംഗുകളുടെ ബീജഗണിത തുകയ്ക്ക് തുല്യമായിരിക്കും ഇപ്പോൾ മൊത്തം വൈദ്യുതി രണ്ട് വാട്ട് മീറ്റർ റീഡിംഗുകളുടെ ആകെത്തുകയ്ക്ക് തുല്യമാണെന്ന് എങ്ങനെ ന്യായീകരിക്കാമെന്ന് നമുക്ക് മനസിലാക്കാം ലാളിത്യത്തിനായി സമതുലിതമായ ത്രീ ഫേസ് സിസ്റ്റത്തിനായി നമ്മൾ രണ്ട് വാട്ട് മീറ്റർ രീതി സ്വീകരിക്കും അതുവഴി വ്യക്തിഗത വാട്ട് മീറ്റർ റീഡിംഗിന്റെ മൊത്തം വൈദ്യുതി ഉപഭോഗത്തിന്റെ ബന്ധം സ്ഥിരപ്പെടുത്താൻ കഴിയും അതിനാൽ മൊത്തം ഊർജ്ജ ഉപഭോഗം രണ്ട് വാട്ട് മീറ്റർ റീഡിംഗുകളുടെ ബീജഗണിത തുകയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ന്യായീകരിക്കും ഈ പ്രത്യേക സർക്യൂട്ട് ക്രമീകരണം പരിഗണിക്കാം ഇതിൽ നിങ്ങൾ ഫേസ് a നും b നും ഇടയിലുള്ള വോൾട്ടേജ് വ്യത്യാസം Vab ഉം ഫേസ് b നും c നും ഇടയിൽ Vcb ആണ് പൊട്ടൻഷ്യൽ കോയിൽ സി മുതൽ ബി വരെ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ വിസിബി എന്ന് എഴുതിയിട്ടുണ്ട് അതിനാൽ സി യെ പ്ലസ് പോയിന്റായും ബി മൈനസായും പരിഗണിക്കും അതിനാൽ വിസിബി പൊട്ടൻഷ്യൽ കോയിലിനു കുറുകെ ഉള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും കാരണം വാട്ട് മീറ്റർ കോയിലുകളുടെ കണക്ഷനുള്ള ഒരു റഫറൻസ് പോയിന്റായി ബി കണക്കാക്കുന്നു ബി ഫേസിൽ ഒഴുകുന്ന വൈദ്യുതധാരയാണ് ഐബി എ ഫേസിൽ ഐഎ സി ഫേസിൽ ഐസി ഈ Ia Ib Ic എന്നിവയും ലൈൻ കറന്റുകളാണ് ഇപ്പോൾ ലാളിത്യത്തിനായി ലോഡ് സമതുലിതമാണെന്ന് നമ്മൾ അനുമാനിച്ചു മൂന്ന് ഫേസിലും ലോഡിന്റെ ഇംപെഡൻസ് ZY ആണെന്ന് നമ്മൾ പറയും ഇപ്പോൾ ഈ പ്രത്യേക പഠനത്തിന്റെ ലക്ഷ്യം ലോഡ് ആഗിരണം ചെയ്യുന്ന ശരാശരി പവർ കണ്ടെത്താൻ നമ്മൾ രണ്ട് വാട്ട് മീറ്റർ രീതി പ്രയോഗിക്കും എന്നതാണ് Y കണക്റ്റുചെയ്ത ലോഡ് നമ്മൾ പരിഗണിച്ചു ഉറവിടം abc ശ്രേണിയിലാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ZY നെ ഫേസറായി പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ അത് ZY ZY∠θ ആയിരിക്കും അതിനാൽ ലോഡ് ഇംപെഡൻസ് വോൾട്ടേജ് കോയിലിന്റെ കറണ്ട് കോയിലിനെകാൾ മുന്നിൽ ആയിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു കാരണം പ്രയോഗിക്കുന്ന ലോഡാണ് ഇത് അതിനാൽ ആ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് പവർ ഫാക്ടർ കോസ് തീറ്റയാണ് ബാലൻസ്ഡ് സ്റ്റാർ സ്റ്റാർ അല്ലെങ്കിൽ വൈ വൈ കണക്റ്റുചെയ്ത നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓർമിക്കാം ലൈൻ വോൾട്ടേജ് അനുബന്ധ ഫേസ് വോൾട്ടേജിനെ 30 ഡിഗ്രി നയിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു ഫേസ് കറണ്ടിലെ Ia ഉം ലൈൻ വോൾട്ടേജ് Vab ഉം തമ്മിലുള്ള മൊത്തം ഫേസ് വ്യത്യാസം 30 ആയിരിക്കുമെന്ന് നമുക്ക് എഴുതാം റഫറൻസ് a ഫേസ് വോൾട്ടേജായി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് ലൈൻ വോൾട്ടേജ് 30 ഡിഗ്രി നയിക്കും അത്തരം സന്ദർഭങ്ങളിൽ വാട്ട്മീറ്റർ W2 ന്റെ ശരാശരി പവർ അതുപോലെ വാട്ട്മീറ്റർ W2 ന്റെ ശരാശരി പവർ നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റികൾ ഉപയോഗിക്കുമ്പോൾ രണ്ട് വാട്ട്മീറ്റർ റീഡിംഗുകളുടെ ആകെത്തുകയും വ്യത്യാസവും കണ്ടെത്തുന്നതിന്

മുകളിലുള്ള സമവാക്യങ്ങളിൽ നിന്ന് ഇത് കാണാൻ കഴിയും ആണെങ്കിൽ ലോഡ് റെസിസ്റ്റീവ് ആണ് P2 P1 ആണെങ്കിൽ ലോഡ് ഇൻഡക്റ്റീവ് ആണ് P2 P1 ആണെങ്കിൽ ലോഡ് കപ്പാസിറ്റീവ് ആണ് ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ മനസിലാക്കാൻ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ നമുക്ക് അസന്തുലിതമായ നക്ഷത്ര കണക്റ്റുചെയ്ത ലോഡ് ഉണ്ടോ എന്ന് നോക്കാം ഇത് 100 V സമതുലിതമായ വോൾട്ടേജുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഫേസ് ക്രമം acb ആണ് ഉള്ള ഈ ക്രമീകരണത്തിനായി നമ്മൾ ലൈൻ കറന്റുകളും ന്യൂട്രൽ കറന്റും കണക്കാക്കേണ്ടതുണ്ട് ഈ പ്രത്യേക നക്ഷത്ര കണക്റ്റുചെയ്ത ലോഡ് നിങ്ങൾ കാണുകയാണെങ്കിൽ ZA ZB ZC എന്നിവ തുല്യമല്ല ലൈൻ വൈദ്യുതധാരകൾ തുല്യമല്ലാത്തതിനാലും ഈ സിസ്റ്റം അസന്തുലിതമായതിനാലും ലൈൻ കറന്റിനായി പ്രത്യേകം പരിഹരിക്കേണ്ടതുണ്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം അതിനാൽ മുമ്പത്തെ പ്രശ്നത്തിൽ എന്താണ് നമ്മൾ കണ്ടത് അസന്തുലിതമായ Y കണക്റ്റുചെയ്ത ലോഡ് ആഗിരണം ചെയ്യുന്ന മൊത്തം പവർ അളക്കുന്നതിന് നമ്മൾ മൂന്ന് വാട്ട് മീറ്റർ രീതി വ്യക്തിഗത ഫേസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ് വാട്ട് മീറ്റർ റീഡിംഗുകളും മൊത്തം ആഗിരണം ചെയ്ത പവറും കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ആയിരിക്കുമ്പോൾ

ഇപ്പോൾ നിങ്ങൾ P യുടെ ശരിയായ മൂല്യത്തിൽ എത്തിയോ എന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വ്യക്തിഗത റെസിസ്റ്ററുകൾ ആഗിരണം ചെയ്യുന്ന ശക്തി കണ്ടെത്താനാകും കാരണം സർക്യൂട്ടിൽ മൂന്ന് രസിസ്റ്ററുകൾ അടങ്ങിയിരിക്കുന്നു മാത്രമല്ല റിയൽ പവർ മാത്രമേ റെസിസ്റ്ററുകൾ ആഗിരണം ചെയ്യുകയുള്ളൂ അതിനാൽ 15 6 ഓം 10 ഓം എന്നിവയാണ് റെസിസ്റ്ററുകൾ അപ്പോൾ നമുക്ക് എന്തുചെയ്യാൻ കഴിയും ഓരോ ഫേസിലേക്കും നമുക്ക് ന്റെ മൂല്യം കണക്കാക്കാം ഒപ്പം സംഗ്രഹിക്കുമ്പോൾ ലോഡ് ആഗിരണം ചെയ്യുന്ന മൊത്തം പവർ ൻറെ മൂല്യം 2067 വാട്ടിന് തുല്യമാണ് അതിനാൽ റിയൽ പവറിന്റെ ശരിയായ മൂല്യത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നതെന്ന് ഇത് പറയുന്നു ഇപ്പോൾ മൂന്നാമത്തെ രീതി വേഗത്തിൽ നോക്കാം മൂന്നാമത്തെ ഉദാഹരണത്തിലും ഓരോ ഫേസിന്റെ ശരാശരി പവറും ഓരോ ഫേസിന്റെ റിയാക്ടീവ് പവറിന്റെ മൂല്യം കൂടാതെ പവർ ഫാക്ടർ കണ്ടെത്തുന്നതിന് നമ്മൾ രണ്ട് വാട്ട് മീറ്റർ രീതി ഉപയോഗിക്കേണ്ടതുണ്ട് P1 1560 W P2 2100 W എന്നിവ നൽകിയിട്ടുണ്ട് ലൈൻ വോൾട്ടേജുകൾ 220 വോൾട്ട് എന്നും നൽകിയിട്ടുണ്ട് P1 P2 എന്നിവ നൽകിയിരിക്കുന്നതിനാൽ മൊത്തം പവർ ലഭിക്കുന്നത് ഓരോ ഫേസിലും ഉള്ള ശരാശരി പവർ മൊത്തം റിയാക്ടീവ് പവർ ഇതായി വിലയിരുത്തുന്നു ഓരോ ഫേസിലും റിയാക്ടീവ് പവർ എന്നത് പവർ ആംഗിൾ എന്നത് അതിനാൽ പവർ ഫാക്ടർ QT പോസിറ്റീവ് അല്ലെങ്കിൽ P2 P1 ആയതിനാൽ പവർ ഫാക്ടർ പിന്നിലാണ് അതിനാൽ ഇതുപയോഗിച്ച് അസന്തുലിതമായ ത്രീ ഫേസ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ വിശകലനവുമായി ബന്ധപ്പെട്ട വിഷയം ആരംഭിക്കും